കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ പരിശോധിച്ചിരുന്നു അതിലെ പ്രധാന പോയിന്റുകളിലൊന്ന് പരിഷ്കരിച്ച വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷനുകൾ ക്രാക്ക് ആക്സിസിനൊപ്പം ഫ്രിഞ്ച് ക്രമത്തിന്റെ വ്യതിയാനം പ്രവചിക്കുന്നില്ല ഒരു യഥാർത്ഥ പരീക്ഷണത്തിൽ നമ്മൾ നിരീക്ഷിക്കുന്ന സവിശേഷതയാണിത് കുറച്ചുകാലമായി ഞാൻ ഈ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ കാണിക്കുന്നു ഫ്രിഞ്ച് കോൺണ്ടറുകളെ വിലമതിക്കുന്നതിൽ നമ്മൾ ഇപ്പോൾ വളരെ പരിചിതനായിരിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതാണ് നമ്മൾക്കിവിടെയുള്ള വിള്ളൽ ഇവിടെ മുന്നോട്ട് ചരിഞ്ഞ ഫ്രിഞ്ച്കളുണ്ട് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഫ്രിഞ്ച്കൾ ഏതാണ്ട് നേരെയാകും ക്രാക്ക് അക്ഷത്തിൽ നമുക്ക് ഫ്രണ്ടൽ ലൂപ്പുകൾ കാണാം അതിനാൽ ക്രാക്ക് അക്ഷത്തിൽ tau xy 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പരിഷ്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ വ്യതിയാനം നൽകുന്നില്ലെന്ന് നമ്മൾ കണ്ടെത്തി ഒരു യഥാർത്ഥ പരീക്ഷണത്തിൽ നമ്മൾ ഫ്രിഞ്ച് ലൂപ്പുകൾ കണ്ടെത്തുന്നു അവ ക്രാക്ക് അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നു ഇത് വളരെ അസാധാരണമാണ് ഫ്രാക്ചർ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാന സ്ട്രെസ് ഫംഗ്ഷനെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നു സോളിഡ് മെക്കാനിക്സിലെ നമ്മുടെ പ്രശ്നങ്ങളിലൊന്നും നമുക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ലഭിക്കുന്ന നിമിഷം നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കുന്നതിനും പിന്നീട് ഡിസ്പ്ലേസ്മെൻറ് കണ്ടുപിടിക്കുന്നതിനും പോകുന്നു നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോയി സ്ട്രെസ് ഫംഗ്ഷൻ യുക്തിസഹമാണോ എന്ന് ചോദ്യം ചെയ്യുക ഫ്രാക്ചർ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത നമ്മൾ കണ്ടെത്തുന്നത് യഥാർത്ഥ പരിഹാരം മോശമായിരുന്നില്ല ഒരേയൊരു കാര്യം യഥാർത്ഥ സ്ട്രെസ് ഫംഗ്ഷൻ അപര്യാപ്തമായിരുന്നു ഫ്രിഞ്ച് പാറ്റേണിന്റെ ഏറ്റവും സാധാരണ സവിശേഷത വിശദീകരിക്കാൻ ഇതിന് കഴിഞ്ഞില്ല എന്നിരുന്നാലും വിള്ളലിന്റെ സമീപസ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില പ്രധാന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ ഇതിന് കഴിഞ്ഞു വെസ്റ്റർഗാർഡ് ചെയ്തതെന്തും തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കരുത് ഇത് അങ്ങനെ അല്ല പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് അതിന്റെ ചില വശങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞു നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും നോക്കുകയും പരിഹാരം എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് കണ്ടെത്തുകയും വേണം പ്രധാന നിരീക്ഷണങ്ങളിലൊന്ന് ഫോട്ടോലാസ്റ്റിക് പരീക്ഷണത്തിലൂടെ നൽകി നമ്മൾ എന്തുചെയ്യും നമ്മൾ നേടിയ സ്ട്രെസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച സ്ട്രെസ് ഫീൽഡ് ഒരു ഏകീകൃത ഫീൽഡിനോ ബയാക്സിയൽ ഫീൽഡിനോ സാധുതയുള്ളതാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചർച്ച നടത്തി ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും സമീപ പ്രദേശത്തെ സിംഗുലാർ പരിഹാരത്തിലൂടെ യുക്തിസഹമായി പരിപാലിക്കുന്നുവെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നു

വെസ്റ്റർഗാർഡ് ഇർവിൻ സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ എന്നിവയിലേക്ക് നോക്കുമ്പോൾ ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജോമട്രി താരതമ്യം ചെയ്തുകൊണ്ട് ഇത് പരീക്ഷണാത്മക ഡാറ്റ മെച്ചപ്പെടുത്തുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും എങ്ങനെ സഹായിക്കുമെന്ന് കണ്ടുപിടിക്കാം നമുക്ക് അതിൽ വ്യത്യസ്തമായ ഒരു രൂപം ഉണ്ടാകും സാൻഫോർഡ് എന്താണ് ചെയ്തത് അദ്ദേഹം ഒരു സ്ട്രെസ് ഫംഗ്ഷൻ Y z അവതരിപ്പിച്ചു കൂടാതെ എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ Z ഡബിൾ ബാറിന്റെ യഥാർത്ഥ ഭാഗം പ്ലസ് y Z ബാറിന്റെ സാങ്കൽപ്പിക ഭാഗം പ്ലസ് Y ബാറിന്റെ സാങ്കൽപ്പിക ഭാഗവുമാണ് psi chi എന്നിവയുടെ ഫംഗ്ഷൻ ആയി Y നൽകിയിരിക്കുന്നു ഒരു അധിക സ്ട്രെസ് ഫംഗ്ഷന്റെ ആമുഖം അനിവാര്യമാണെന്ന് സാൻഫോർഡ് ന്യായീകരിച്ചു കാരണം നമ്മൾ കൊളോസോവ് മസ്കെലിഷ്വിലി ഫോർമുലേഷൻ നോക്കുകയാണെങ്കിൽ പൊതുവേ ഏതെങ്കിലും എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ അനുയോജ്യമായ കോമ്പിനേഷനുകളിൽ രണ്ട് അനലിറ്റിക്കൽ ഫംഗ്ഷനുകളായി നൽകുന്നു അതിനാൽ ആ യുക്തിയിൽ നിന്ന് നമുക്ക് എന്തിനാണ് കൂടുതൽ സ്ട്രെസ് ഫംഗ്ഷൻ വേണ്ടത് എന്ന് ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻറെ അർത്ഥമെന്താണെന്ന് നമ്മൾ കാണും ഏറ്റവും സാധാരണമായ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന തരത്തിലുള്ള പാറ്റേൺ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് Forms of Z and Y Z Y എന്നിവയുടെ ഫോമുകൾ വെസ്റ്റർഗാർഡ് പരിഹാരമായി നമ്മൾ എന്താണ് കാണുന്നത് ജനറിക് ഫോർമുലേഷനിൽ Y യുടെ സാങ്കൽപ്പിക ഭാഗം 0 ലേക്ക് y 0 ന് തുല്യമാണെങ്കിൽ നമുക്ക് പരമ്പരാഗത വെസ്റ്റർഗാർഡ് പരിഹാരം ലഭിക്കും നമ്മൾ ഇതിനകം തന്നെ നോക്കിയിരുന്നു നമ്മൾ ഫ്രിഞ്ച് പാറ്റേൺ പ്ലോട്ട് ചെയ്യുമ്പോൾ ഫ്രിഞ്ച്കൾ x ആക്സിസിനെയും y ആക്സിസിനെയും സിമെട്രിക് ആക്കി അതിനർത്ഥം ഫ്രിഞ്ച്കൾ നേരെയായിരുന്നു ക്രാക്ക് ടിപ്പിനോട് വളരെ അടുത്ത് നമുക്ക് പ്ലാസ്റ്റിക് രൂപാന്തരീകരണം ഉണ്ട് അതിനാൽ നമുക്ക് ആ മേഖലയിൽ ഡാറ്റ ശേഖരിക്കാൻ കഴിയില്ല ഒരു പരീക്ഷണത്തിൽ നമുക്ക് ഡാറ്റ ശേഖരിക്കാനുള്ള ഏക മാർഗം ഈ മേഖലയിൽ നിന്ന് അകലെയാണ് ഈ സോണിൽ നിന്ന് അകലെ എനിക്ക് ശേഖരിക്കാൻ ആവശ്യമായ ഡാറ്റ പോയിന്റുകൾ ഉണ്ടായിരിക്കണം അതിനാൽ വെസ്റ്റർഗാർഡ് പരിഹാരം കാണാനുള്ള ഒരു മാർഗ്ഗം ഇത് പരീക്ഷണാത്മക പ്രോസസ്സിംഗിനായി വളരെ കുറച്ച് ഡാറ്റ മാത്രമേ നൽകുന്നുള്ളൂ നമ്മൾ ഇതിനകം ഫ്രിഞ്ച്കൾ പ്രധാനമായും മുന്നോട്ട് ചെരിഞ്ഞ് ഇരിക്കുന്നതായി കണ്ടു നേരായ ഫ്രിഞ്ച് ഫ്രിഞ്ച് പാറ്റേണിന് വളരെ അടുത്താണ് ഇത് വിള്ളൽ ടിപ്പിന് വളരെ അടുത്താണോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതുവഴി പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കാം അതിനാൽ നമ്മൾ ആ അൺഇലാസ്റ്റിക് ഡിഫോർമേഷൻ മേഖലയെ ഒഴിവാക്കണം കൂടാതെ നമ്മൾ ആ സിംഗുലാരിറ്റി ആധിപത്യമേഖലയിൽ ജീവിക്കണം സിംഗുലാരിറ്റി ആധിപത്യമേഖലയുടെ വലുപ്പവും രൂപവും പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഒരു പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്ന് ഈ സമവാക്യം സാധുതയുള്ളതാണെന്ന ഒരു ആശയം നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് ക്രാക്ക് ടിപ്പിനടുത്തുള്ള വളരെ ചെറിയ ഒരു മേഖലയിൽ മാത്രമേ ഡാറ്റ ശേഖരിക്കാൻ കഴിയൂ മറുവശത്ത് വെസ്റ്റർഗാർഡ് സാമാന്യവൽക്കരിച്ച ഫോർമുലേഷനിൽ നമ്മൾ Y യെ ഒരു യഥാർത്ഥ കോൺസ്റ്റൻസ് ആയി സജ്ജമാക്കുകയാണെങ്കിൽ Y യെ A യ്ക്ക് തുല്യവും 2 psi പ്രൈം എന്നത് Z മൈനസ് A ന് തുല്യവുമാണെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് വെസ്റ്റർഗാർഡ് സമവാക്യത്തിന്റെ ഇർവിൻ പരിഷ്ക്കരണം ലഭിക്കും ഇതിൽ നമ്മൾ എന്താണ് കണ്ടത് സിഗ്മ നോട്ട് x എന്ന ചിഹ്നം നമ്മൾ ഏത് എടുത്താലും അത് ഫ്രിഞ്ച്കളുടെ മുന്നോട്ടുള്ള ചരിവ് അല്ലെങ്കിൽ ഫ്രിഞ്ച്കളുടെ പിന്നോക്ക ചരിവ് കാണിക്കുന്നു ഇത് ചെറിയ വിള്ളലുകൾ മാതൃകയാക്കുന്നു SEN മാതൃകയുടെ കാര്യത്തിൽ അത് മുന്നോട്ട് ചരിഞ്ഞതാണ് RDCB മാതൃകയുടെ കാര്യത്തിൽ ഇത് പിന്നോക്ക ചരിവാണ് അതിനാൽ നമ്മൾ മനസിലാക്കേണ്ടത് ഒരു പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ മേഖല നൽകുന്നു തീറ്റ m ന്റെ പരിധി എന്തായിരിക്കണം വിള്ളലിന്റെ നീളവുമായി ബന്ധപ്പെട്ട് r ന്റെ ദൂരം എന്തായിരിക്കണം എന്നതും പഠനങ്ങളുണ്ട് നമ്മൾ ഡാറ്റ ശേഖരിക്കുമ്പോൾ K സിഗ്മ നോട്ട് x എന്നിവയുടെ വിലയിരുത്തൽ പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്ന് സാധുതയുള്ളതാണ് വിള്ളൽ അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ് അതിനാൽ നമ്മൾ നോക്കേണ്ടത് ഇർവിന്റെ സൂത്രവാക്യത്തിലേക്ക് പോകുന്നതിലൂടെ പരീക്ഷണത്തിലെ വിവരശേഖരണ മേഖല വിപുലീകരിക്കാൻ നമ്മൾക്ക് കഴിയും ഒടുവിൽ സാൻഫോർഡ് ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് നമ്മൾ Y യുടെ സാങ്കൽപ്പിക ഭാഗം 0 ആയി ഉറപ്പിക്കാം നമ്മൾ 2 psi പ്രൈം എന്നത് Z മൈനസ് Y ന് തുല്യമായി സജ്ജമാക്കുകയും വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളുടെ ഏറ്റവും സാധാരണ രൂപം കണ്ടെത്തുകയും ചെയ്താൽ ഇത് ക്രാക്ക് ആക്സിസിനൊപ്പം ഫ്രിഞ്ച് ഓർഡറുകളുടെ വ്യതിയാനത്തെയും മാതൃകയാക്കുന്നു കൊളോസോവ് മസ്കെലിഷ്വിലി റൂട്ടിൽ നിന്ന് വരുന്നതിനുപകരം ഉചിതമായ രീതിയിൽ നേരിട്ട് ഡിഫറെൻഷ്യറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ സമവാക്യങ്ങൾ നേടാനാകും എനിക്ക് എയറിസ് സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട് അതിനെ ഡിഫറെൻഷ്യറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് ഇത് നേടാൻ കഴിയും ഇത് വരെ നമ്മൾ എല്ലാവരും അവസാന ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും Y Z എന്നിവയുടെ രൂപമെന്താണ് Z Y എന്നിവ കണക്കാക്കുന്നത് ഈ പോളിനോമിയൽ സീരീസ് കാണുക എനിക്ക് Z എന്നത് സിഗ്മ j 0 മുതൽ J വരെ C 2 j z പവർ j മൈനസ് പകുതി എന്ന് ലഭിക്കും ഇത് വളരെ സമാനമാണ് നമ്മൾ ആദ്യ പദം നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സിംഗുലാർ പരിഹാരം തന്നെയാണ് നമുക്ക് z പവർ മൈനസ് പകുതി ഉണ്ടാകും അതായത് റൂട്ട് r സിംഗുലാരിറ്റി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഉയർന്ന ഓർഡർ ഘടകങ്ങളുണ്ട് ടഡ പാരീസ് ഇർവിൻ എന്നിവരുടെ പരിഷ്ക്കരണം നോക്കുകയാണെങ്കിൽ ഇത് ഇതിന് സമാനമായിരിക്കും കൃത്യമായി സമാനമല്ല പക്ഷേ അതിന് സമാനമാണ് Z ഒരു സീരീസ് ഫോമായി എടുക്കുന്നതിലൂടെ മാത്രം ഫ്രിഞ്ച് ലൂപ്പുകളുടെ ഫോർവേഡ് ടിൽറ്റ് അല്ലെങ്കിൽ ക്രാക്കിന് മുന്നിലുള്ള ഫ്രിഞ്ച് ലൂപ്പ് ലഭിക്കുകയില്ല ഫോർവേർഡ് ടിൽറ്റഡ് ലൂപ്പുകൾക്കോ വിള്ളലിന് മുന്നിലുള്ള ഫ്രിഞ്ച് ലൂപ്പിനോ അത് നേടാൻ കഴിയില്ല Y z എന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് സാൻഫോർഡ് ചൂണ്ടിക്കാട്ടി ഇതും സീരീസ് രൂപത്തിൽ നൽകിയിരിക്കുന്നു ഇത് സിഗ്മ j 0 മുതൽ j വരെ C 2 j പ്ലസ് 1 z പവർ j എന്നതിന് തുല്യമാണ് അതിനാൽ നമ്മൾ ആദ്യ ടേം നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിഗ്മ നോട്ട് x പോലെയാകും കൂടാതെ നമുക്ക് ഉയർന്ന ഓർഡർ ഘടകങ്ങളുണ്ട് Z ഫംഗ്ഷന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ലഭിക്കും ആദ്യ പദം ഒരു സിംഗുലാർ പദമാണ് അതിനുശേഷം നമുക്ക് ഉയർന്ന ഓർഡർ ഘടകങ്ങളുണ്ട് അതിനാൽ നമുക്ക് ഈ രീതിയിൽ നിർവചിച്ചിരിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ ഒപ്പം Z ഉം Y ഉം ഒരേസമയം എടുക്കുകയാണെങ്കിൽ പരമാവധി ഷിയർ സ്ട്രെസ്നായുള്ള എക്സ്പ്രഷൻ കാണിക്കാൻ സാൻഫോർഡിന് കഴിഞ്ഞു നമുക്ക് സിഗ്മ j 0 മുതൽ j വരെ C 2 j പ്ലസ് 1 z പവർ j എന്നതിന് തുല്യമാണ് നമുക്ക് ഇതുപോലുള്ള ഒരു പദപ്രയോഗം ഉണ്ടാകുമ്പോൾ ഇത് ക്രാക്ക് അക്ഷത്തിൽ ഫ്രിഞ്ച് ഓർഡർന്റെ വ്യതിയാനം പ്രവചിക്കുന്നു തുടർന്നുള്ള ഒരു ക്ലാസ്സിൽ ഒരു മൾട്ടി പാരാമീറ്റർ പരിഹാരം എടുക്കുന്നതിലൂടെ പരീക്ഷണാത്മകമായി ലഭിച്ച പാറ്റേണുകളുടെ എല്ലാ സവിശേഷതകളും എങ്ങനെ പിടിച്ചെടുക്കാമെന്ന് ഞാൻ കാണിക്കും അതിനാൽ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് നമ്മൾ Z ഉം Y ഉം എടുക്കുകയും Y യുടെ സാങ്കൽപ്പിക ഭാഗം y പൂജ്യം ആകുമ്പോൾ പൂജ്യത്തിനു തുല്യമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ ക്രാക്ക് ആക്സിസിനൊപ്പം 0 ന് തുല്യമായ ഷിയർ സ്ട്രെസ് tau xy നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു അതേസമയം പരമാവധി ഷിയർ സ്ട്രെസ് ക്രാക്ക് അക്ഷത്തിൽ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഈ പ്രതീക്ഷയിൽ നിന്ന് മാത്രം പരമ്പരാഗത വെസ്റ്റർഗാർഡ് പരിഹാരം അപര്യാപ്തമാണെന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റല്ല ഒരു പരീക്ഷണത്തിൽ നമ്മൾ നിരീക്ഷിച്ച എല്ലാ സവിശേഷതകളെയും പ്രതിനിധീകരിക്കുന്നത് അപര്യാപ്തമായിരുന്നു ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് വെസ്റ്റർഗാർഡ് പരിഹാരം ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡിനോ ഏകീകൃത സ്ട്രെസ് ഫീൽഡിനോ സാധുതയുള്ളതാണോ എന്ന് നമ്മൾ ചർച്ച നടത്തി പിന്നെ നമ്മൾ ഒരു രീതിയിൽ വാദിച്ചു ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഏത് പ്രശ്നത്തിനും നമ്മൾ മൾട്ടി പാരാമീറ്റർ പരിഹാരത്തിനായി പോകേണ്ടതുണ്ട് ഏകീകൃതവും ബയാക്സിയലും സംബന്ധിച്ച ചർച്ച നമ്മളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല കാരണം വിള്ളൽ ടിപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് വിള്ളൽ മുഖങ്ങൾ പരസ്പരം എങ്ങനെ സ്ഥാനമാറ്റം സംഭവിക്കുന്നു എന്നതാണ് നമുക്ക് മോഡ് I മോഡ് II മോഡ് III അല്ലെങ്കിൽ മോഡ് I മോഡ് II മോഡ് III എന്നിവയുടെ സംയോജനമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് അതാണ് അതിനാൽ സ്ട്രെസ് ഫംഗ്ഷൻ Y കൊണ്ടുവരികയും Z Y എന്നിവ സീരീസ് ഫംഗ്ഷനുകളായി എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സാൻഫോർഡിന്റെ സമീപനത്തിന്റെ വിജയം tau മാക്സിനായി വിശകലനപരമായി ഒരു പദപ്രയോഗം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് ക്രാക്ക് അക്ഷത്തിൽ വ്യത്യാസപ്പെടുന്നു സീരീസ് സ്ട്രെസ് ഫീൽഡ് ഇപ്പോൾ നമുക്ക് സ്ട്രെസ്നുള്ള പദപ്രയോഗവും ലഭിക്കും ഇത് എഴുതുക അടുത്ത രണ്ട് ക്ലാസുകളിൽ നമ്മൾ നീണ്ട പദപ്രയോഗങ്ങൾ എഴുതണം ഇവ ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന് എടുത്തവയാണ് അവയിൽ ചിലത് എന്റെ വിദ്യാർത്ഥികൾ പ്രത്യേകം തയ്യാറാക്കിയവയാണ് പ്രസിദ്ധീകരിച്ച സാഹിത്യത്തിൽ നമ്മൾ അവ കണ്ടെത്തിയേക്കില്ല ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ ഉള്ളപ്പോൾ നിങ്ങളുടെ കുറിപ്പുകൾ സമഗ്രമായിരിക്കും സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് സിഗ്മ x സിഗ്മ J0 മുതൽ J വരെ C 2j r പവർ j മൈനസ് ഹാഫ് ഗുണം കോസ് j മൈനസ് ഹാഫ് തീറ്റ ബൈ j മൈനസ് ഹാഫ് മൈനസ് സൈൻ j മൈനസ് 3 ബൈ 2 തീറ്റ സൈൻ തീറ്റ എന്ന് ലഭിക്കും നമുക്കു രണ്ടാമത്തെ പദം ഉണ്ട് അത് സിഗ്മ J0 മുതൽ J വരെ C 2j പ്ലസ് 1 j ഗുണം r പവർ j ഗുണം മൈനസ് സൈൻ തീറ്റ സൈൻ j മൈനസ് 1 തീറ്റ പ്ലസ് 2 കോസ് j തീറ്റ ബൈ j എന്നു ലഭിക്കുന്നു സിഗ്മ y എന്നതിന് നമുക്ക് ഒരു പദപ്രയോഗമുണ്ട് ഇതും ഞാൻ നിങ്ങൾക്കായി വായിക്കും സിഗ്മ y എന്നത് സിഗ്മ j0 മുതൽ J വരെ C 2j ഗുണം j മൈനസ് ഹാഫ് ഗുണം r പവർ j മൈനസ് ഹാഫ് ഗുണം കോസ് j മൈനസ് ഹാഫ് തീറ്റ ബൈ j മൈനസ് ഹാഫ് മൈനസ് സൈൻ j മൈനസ് 3 ബൈ 2 തീറ്റ സൈൻ തീറ്റ എന്നതാണ് രണ്ടാമത്തെ പദം സിഗ്മ j0 മുതൽ J വരെ C 2j പ്ലസ് 1 j r പവർ j സൈൻ തീറ്റ സൈൻ j മൈനസ് 1 തീറ്റ എന്ന് ലഭിക്കും ഈ പദപ്രയോഗങ്ങൾ വളരെ വിചിത്രമാണെന്ന് നമുക്കു തോന്നും എന്ന് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് അത്തരം സങ്കീർണ്ണമായ സ്ട്രെസ് ഫംഗ്ഷനുകൾ ഉള്ളപ്പോൾ അന്തിമ പദപ്രയോഗങ്ങൾ വിചിത്രമായിരിക്കും ഒരുപക്ഷേ അടുത്ത ക്ലാസ്സിൽ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡിനായി നമ്മൾക്ക് മനോഹരമായ ഒരു പദപ്രയോഗമുണ്ടാകും നമ്മൾ അതിലേക്ക് പോകും എന്നാൽ അതിലേക്ക് പോകുന്നതിനുമുമ്പ് സാൻഫോർഡ് തന്റെ സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളിലൂടെ നേടിയ സ്ട്രെസ് ഫീൽഡ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഷിയർ സ്ട്രെസ് tau xy എന്താണെന്നു നോക്കാം അത് മൈനസ് സിഗ്മ j 0 മുതൽ j വരെ C2j j മൈനസ് ഹാഫ് r പവർ j മൈനസ് ഹാഫ് കോസ് j മൈനസ് 3 ബൈ 2 തീറ്റ സൈൻ തീറ്റ മൈനസ് സിഗ്മ j 0 മുതൽ j വരെ C 2 j 1 j r പവർ j കോസ് j മൈനസ് 1 തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ j തീറ്റ ബൈ j എന്ന് ലഭിക്കുന്നു

നമുക്ക് പൂർണ്ണമായ പദപ്രയോഗങ്ങളും കാണിക്കും അതിനാൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പോഗ്രാഫിക്കൽ പിശക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവ വീണ്ടും പരിശോധിച്ച് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താം ഇപ്പോൾ ഇവ സീരീസ് ഫംഗ്ഷനുകളായി എനിക്കുണ്ട്

നമ്മൾ ഘടകങ്ങൾ ശ്രദ്ധാപൂർവ്വം വേർതിരിക്കുകയാണെങ്കിൽ ഇതിന് വെസ്റ്റർഗാർഡിലുള്ളത് പോലെയുള്ള സിംഗുലാർ പദം ഉണ്ട് കൂടാതെ നമുക്ക് ഉയർന്ന ഓർഡർ പദങ്ങളും ഉണ്ട് മോഡലിംഗ് പ്രശ്നങ്ങൾ ചെയ്യുന്നതിന് എത്ര ഉയർന്ന ഓർഡർ പദങ്ങൾ ആവശ്യമാണ് എന്ന ചോദ്യം അവശേഷിക്കുന്നു അത് വീണ്ടും പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു വില്യമിന്റെ ഈജൻ ഫംഗ്ഷൻ സമീപനം ക്രാക്ക് അക്ഷത്തിൽ പരമാവധി ഷിയർ സ്ട്രെസ്ന്റെ വ്യതിയാനം വിശദീകരിക്കുന്ന ഒരു സീരീസ് പരിഹാരം നമുക്ക് ഇവിടെ നേടാനാകും സങ്കീർണ്ണമായ ഡൊമെയ്നിലാണ് ഇത് ചെയ്യുന്നത് ഈ വെസ്റ്റർഗാർഡ് പരിഹാരം 1939 ലും സാൻഫോർഡിന്റെ പരിഷ്ക്കരണം 1979 ലും വന്നു വില്യമിൻറെ മറ്റൊരു സമീപനവും നമുക്കുണ്ടായിരുന്നു ഇത് 1957 ലായിരുന്നു അദ്ദേഹം പ്രശ്നത്തെ മറ്റൊരു വീക്ഷണകോണിൽ വീക്ഷിച്ചു വാസ്തവത്തിൽ അദ്ദേഹം ഒരു വെഡ്ജ് പരിഗണിച്ചു ഉപരിതലങ്ങൾ സ്വതന്ത്രവും വിദൂര ലോഡിംഗ് ഉള്ളതുമായ ഒരു വെഡ്ജ് അദ്ദേഹം പരിഗണിച്ചു ഞാൻ വെഡ്ജിനെ അത്തരമൊരു രീതിയിൽ നോക്കുന്നുവെന്ന് കരുതുക ഞാൻ ഈ രീതിയിൽ ആംഗിൾ ഉണ്ടാക്കുന്നു കഴിയുന്നത്ര വലുതാക്കുക ഞാൻ ആൽഫയെ 180 ഡിഗ്രിക്കും മൈനസ് ആൽഫ മൈനസ് 180 ഡിഗ്രിക്കും തുല്യമാക്കുമ്പോൾ അത് ഒരു വിള്ളലായി മാറുന്നു അതിനാൽ അദ്ദേഹം ഒരു വെഡ്ജ് പ്രശ്നം വിശകലനം ചെയ്യാൻ ആഗ്രഹിച്ചു ഇതാണ് അദ്ദേഹം 1952 ൽ പ്രസിദ്ധീകരിച്ചത് പിന്നീട് 1957 ൽ ഒരു പേപ്പറിൽ വിള്ളൽ പ്രശ്നങ്ങൾക്കായി ഇത് പരിഷ്കരിച്ചു സ്വതന്ത്രവും അൺലോഡുചെയ്തതുമായ വിള്ളൽ പ്രതലങ്ങൾ അദ്ദേഹം എടുത്തു പോളാർ കോർഡിനേറ്റുകളിൽ നിന്ന് അദ്ദേഹം പ്രശ്നത്തെ സമീപിച്ചു ഇതിനായി അദ്ദേഹം എന്താണ് സ്ട്രെസ് ഫംഗ്ഷൻ എടുത്തത് R ന്റെ ഫംഗ്ഷൻ അദ്ദേഹം തീറ്റയുടെ ഫംഗ്ഷൻ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ phi എന്നത് r പവർ ലാംഡ പ്ലസ് 1 തീറ്റയുടെ ഫംഗ്ഷൻ ആയി നൽകിയിരിക്കുന്നു അതിനാൽ തീറ്റയുടെ ഈ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ലാംഡയുടെ മൂല്യം എന്താണ് ഇതിനെ വില്യമിന്റെ ഈജൻ ഫംഗ്ഷൻ അപ്രോച്ച് എന്നും വിളിക്കുന്നു

അതിനാൽ നമ്മൾ ലാംഡയെ ഒരു ഈജൻ മൂല്യം എന്ന് വിളിക്കുന്നു കൂടാതെ ഈ ഓരോ ലാംഡയ്ക്കും നമുക്ക് അനുബന്ധ ഫംഗ്ഷൻ ഉണ്ടാകും അതിനെ ഈജൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ പ്രശ്നങ്ങളിലെല്ലാം നമുക്ക് ക്ലാസ്സിൽ എന്തുചെയ്യാൻ കഴിയും അതിർത്തി വ്യവസ്ഥ എഴുതുക എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്പോളാർ കോർഡിനേറ്റുകളിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്നതാണ് അതിനാൽ പോളാർ കോർഡിനേറ്റുകളിൽ സിഗ്മ r സിഗ്മ തീറ്റ tau r തീറ്റ എന്നിവ ഞാൻ പ്രധാനമായും വിലയിരുത്തുന്നു അതിനാൽ എനിക്ക് സിഗ്മ r എന്ന പദപ്രയോഗം ഉണ്ടാകും അത് r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കും നമ്മൾ എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന രീതി അതാണ് വെസ്റ്റർഗാർഡ് പരിഹാരത്തിൽ മാത്രം നമ്മൾക്ക് കാർട്ടീഷ്യൻ സ്ട്രെസ് ഘടകങ്ങൾ ഉണ്ടായിരുന്നു R തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവ പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ സിഗ്മ r സിഗ്മ തീറ്റ tau r തീറ്റ എന്നിവ r തീറ്റ യിൽ പ്രകടിപ്പിക്കും അതിർത്തി വ്യവസ്ഥകൾ എങ്ങനെ നിർവചിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരു സ്വതന്ത്ര ഉപരിതലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇതിനകം പരാമർശിച്ചു ഒരു സ്വതന്ത്ര ഉപരിതലത്തിൽ സ്ട്രെസ് വെക്റ്റർ 0 ആയിരിക്കും പക്ഷേ സ്ട്രെസ് ടെൻസർ ഇപ്പോഴും നിലനിൽക്കും അതിനാൽ എനിക്ക് ഇതുപോലുള്ള ഒരു റേഡിയൽ ലൈൻ ഉള്ളപ്പോൾ ഈ വരിയിൽ സ്ട്രെസ്ന്റെ ഏത് ഘടകമാണ് അനുവദനീയമെന്ന് ഒരു റേഡിയൽ ലൈനായി അതിനെ വിളിച്ചുകൊണ്ട് ഞാൻ സൂചന നൽകി അത് സിഗ്മ തീറ്റയാണോ അതോ സിഗ്മ r ആണോ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് സിഗ്മ r അല്ലെങ്കിൽ സിഗ്മ തീറ്റയാണോ സിഗ്മ r ന് നിലനിൽക്കാൻ കഴിയും സിഗ്മ തീറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇതാണ് റേഡിയൽ ലൈൻ നമ്മൾ അത് ശ്രദ്ധിക്കണം അതിനാൽ ഈ പ്രശ്നത്തിന്റെ അതിർത്തി വ്യവസ്ഥകൾ tau r തീറ്റ 0 ന് തുല്യമാണ് സിഗ്മ തീറ്റ 0 ന് തുല്യമാണ് ഇവിടെ തീറ്റ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൽഫയുമാണ് ഇവിടെ നമ്മൾ വളരെ സാധാരണമായ ഒരു പദപ്രയോഗം എഴുതും ജനറിക് എക്സ്പ്രഷൻ എഴുതിയതിന് ശേഷം നമ്മൾ ആൽഫയെ പൈയ്ക്ക് തുല്യമായി മാറ്റിസ്ഥാപിക്കും അത് വിള്ളലിൽ പ്രശ്നങ്ങളുണ്ടാക്കും ഇവിടെ അനന്തതയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നും ചർച്ച ചെയ്യുന്നില്ല ആ സ്ഥലത്ത് ഒരു യൂണിഫോം ലോഡിംഗിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പുസ്തകങ്ങൾ പറയുന്നു വിള്ളൽ മുഖങ്ങൾ എങ്ങനെയാണെന്നതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് ആശങ്ക വിള്ളൽ മുഖങ്ങൾ സ്വതന്ത്രമാണ് അതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ പരിഹാരം നോക്കുമ്പോൾ ഇത് ഒരു പ്ലാനർ പ്രശ്നമാണെന്ന് നമ്മൾ കണ്ടെത്തും മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിനായി പരിഹാരം നിങ്ങളെ സ്വയമേവ എടുക്കും പോളാർ കോർഡിനേറ്റുകളിൽ സ്ട്രെസ് ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ അടിസ്ഥാനങ്ങൾ ബ്രഷ് അപ്പ് ചെയ്യാം സ്ട്രെസ് ഫംഗ്ഷൻ phi നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ rr എഴുതാം സിഗ്മ rr എന്നത് 1 ബൈ r dow ഫൈ ബൈ dow r പ്ലസ് 1 ബൈ r സ്ക്വയേർഡ് dow സ്ക്വയർ ഫൈ ബൈ dow തീറ്റ സ്ക്വയർ ആണ് r പവർ ലാംഡ പ്ലസ് 1 തീറ്റയുടെ ഫംഗ്ഷനായി നമ്മൾ ഇതിനകം phi എടുത്തിട്ടുണ്ട് അതിനാൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുമ്പോൾ സിഗ്മ rr ൻറെ പദപ്രയോഗം 1 ബൈ r തീറ്റയുടെ ഫംഗ്ഷൻ ലാംഡ പ്ലസ് 1 r പവർ ലാംഡ പ്ലസ് 1 ബൈ r സ്ക്വയേർഡ് r പവർ ലാംഡ പ്ലസ് 1 f ഡബിൾ പ്രൈം തീറ്റ എന്ന് ലഭിക്കും ഡബിൾ പ്രൈം വളരെ വ്യക്തമല്ലെന്ന് ഞാൻ കരുതുന്നു നമ്മൾ f ഡബിൾ പ്രൈം തീറ്റ ശ്രദ്ധാപൂർവ്വം എഴുതണം സിഗ്മ തീറ്റയെ എങ്ങനെ വിലയിരുത്താമെന്നും നമ്മൾക്കറിയാം കൂടാതെ സിഗ്മ തീറ്റ തീറ്റ എന്നതു dow സ്ക്വയർ ഫൈ ബൈ dow r സ്ക്വയർ ആയി നൽകുന്നു അത് ലാംഡ ഗുണം ലാംഡ പ്ലസ് 1 r പവർ ലാംഡ മൈനസ് 1 f തീറ്റ ആണ് ഫംഗ്ഷൻ phi ന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ഇതിനകം ഊഹിച്ചതിനാൽ അതിൻറെ സ്വഭാവം നമ്മൾക്കറിയാമെങ്കിൽ അത് ഇവിടെ മാറ്റിസ്ഥാപിച്ചാൽ നമുക്ക് ഈ ഫോമിന്റെ ഒരു പദപ്രയോഗം ലഭിക്കും ഷിയർ സ്ട്രെസ് tau r തീറ്റയും നമുക്ക് ലഭിക്കും അത് മൈനസ് dow ബൈ dow r 1 ബൈ r dow ഫൈ ബൈ dow തീറ്റ ആണ് അത് മൈനസ് ലാംഡ ബൈ r സ്ക്വയേർഡ് r പവർ ലാംഡ പ്ലസ് 1 f പ്രൈം തീറ്റ യ്ക്ക് തുല്യമാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് അതിർത്തി വ്യവസ്ഥ എഴുതുന്നത് സിഗ്മ തീറ്റ തീറ്റ tau r തീറ്റ എന്നിവയിൽ നമ്മൾ ഒരു അതിർത്തി വ്യവസ്ഥ എഴുതുന്നു സിഗ്മ തീറ്റ തീറ്റ 0 ആയിരിക്കണമെന്ന് നമുക്കറിയാം ആൽഫ വ്യക്തമാക്കുമ്പോൾ ആൽഫയുടെ ചില മൂല്യമായി തീറ്റ വ്യക്തമാക്കുമ്പോൾ അതിനാൽ വിള്ളൽ മുഖത്ത് സിഗ്മ തീറ്റ തീറ്റ 0 ആണ്ഈ പദപ്രയോഗത്തിൽ നിന്ന് എന്താണ് സൂചിപ്പിക്കുന്നത് ഈ അളവുകൾക്ക് 0 ലേക്ക് പോകാൻ കഴിയില്ല അതിനാൽ സിഗ്മ തീറ്റ തീറ്റ 0 ആണെന്ന് ഞാൻ പറയുമ്പോൾ അത് ഫംഗ്ഷൻ തീറ്റ 0 എന്ന് സൂചിപ്പിക്കുന്നു മറുവശത്ത് tau r തീറ്റ 0 ആണെന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് f പ്രൈം തീറ്റ 0 ആയിരിക്കും അതിർത്തി വ്യവസ്ഥകൾ അതിർത്തി വ്യവസ്ഥകൾ എഴുതുന്നതിൽ നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതെല്ലാം ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു വിള്ളൽ പ്രതലങ്ങളിൽ സിഗ്മ തീറ്റ 0 ന് തുല്യവും tau r തീറ്റ 0 ന് തുല്യവുമാണ് അതായത് തീറ്റ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൽഫയ്ക്ക് തുല്യമാകുമ്പോൾ ഞാൻ ആൽഫ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും ഒരു വെഡ്ജ് മാത്രമാണ് പൈയ്ക്ക് തുല്യമായ ആൽഫ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു വിള്ളലായി മാറുന്നു അതിനാൽ നമുക്ക് ഒരു കേസിൽ തീറ്റ 0 ന് തുല്യമാണ് മറ്റൊരു സാഹചര്യത്തിൽ ഫംഗ്ഷന്റെ ആദ്യ ഡിഫറൻഷ്യൽ 0 ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ f തീറ്റയുടെ ഒരു ഈജൻ ഫംഗ്ഷനാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ പ്രശ്നങ്ങളിലെല്ലാം ഏറ്റവും സാധാരണമായ പരിഹാരം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് ലാംഡയുടെ ഓരോ മൂല്യത്തിനും ഒരാൾക്ക് അനുബന്ധ ഈജൻ ഫംഗ്ഷൻ ലഭിക്കും ഈ പരിഹാരങ്ങളുടെ ആകെത്തുകയാണ് ഏറ്റവും സാധാരണ പരിഹാരം അപ്പോൾ ഈ രീതി എന്താണ് ഉറപ്പ് നൽകുന്നത് നമ്മൾ ഒരു സീരീസ് പരിഹാരം നേടാൻ പോകുന്നു വില്യം റിപ്പോർട്ടുചെയ്തപ്പോൾ സീരീസ് പരിഹാരത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിഫലിപ്പിച്ച രീതിയും നമ്മൾ നോക്കും അതും നാം നോക്കണം 1957 ൽ ഇത് വികസിപ്പിച്ചെടുക്കുകയും ചില അതിർത്തി കോലോക്കേഷൻ ഉത്തരങ്ങൾ എഴുതാൻ ആളുകൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും T സ്ട്രെസ് ആളുകൾ ശരിക്കും വിലമതിച്ചിട്ടില്ല അത് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും സാമാന്യവൽക്കരിച്ച പരിഹാരമാണ് ഈ വ്യക്തിഗത പരിഹാരങ്ങളുടെ ആകെത്തുക നമ്മൾ സമവാക്യങ്ങൾ എഴുതാം സ്ട്രെസ് ഫംഗ്ഷന് ശരിയായ ഒരു ഘടകമാണ് ആണ് ഫൈ എന്ന് ഞാൻ കണ്ടെത്തുമ്പോൾ അത് ബൈ ഹാർമോണിക് സമവാക്യം തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ ബൈ ഹാർമോണിക് സമവാക്യം നമ്മൾ എടുത്ത സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ d പവർ 4 f ബൈ d തീറ്റ പവർ 4 പ്ലസ് 2 തവണ ലാംഡ സ്ക്വയറും പ്ലസ് 1 d സ്ക്വയർ f ബൈ d തീറ്റ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയേർഡ് മൈനസ് 1 മുഴുവനും സ്ക്വയർ f 0 ന് തുല്യമാണ് എറിസ് സ്ട്രെസ് ഫംഗ്ഷൻ phi നമ്മൾ എങ്ങനെയാണ് എടുത്തതെന്ന് നമുക്കറിയാം നമ്മൾ അതിനെ ബൈ ഹാർമോണിക് സമവാക്യത്തിൽ പകരം വയ്ക്കുകയും നമുക്ക് ഫലമായി ലഭിക്കുന്ന സമവാക്യം ഇങ്ങനെ ലഭിക്കുകയും ചെയ്യും അതിനാൽ ഇത് പരിഹരിക്കുന്നതിലൂടെ നമുക്ക് ഈജൻ മൂല്യങ്ങളും ഈജൻ ഫംഗ്ഷനുകളും കണ്ടെത്താനാകും ഇതിനുള്ള ഏറ്റവും സാധാരണ പരിഹാരം C 1 കോസ് ലാംഡ മൈനസ് 1 തീറ്റ പ്ലസ് C2 സൈൻ ലാംഡ മൈനസ് 1 തീറ്റ C3 കോസ് ലാംഡ പ്ലസ് 1 തീറ്റ പ്ലസ് C4 സൈൻ ലാംഡ പ്ലസ് 1 f ഓഫ് തീറ്റയ്ക്ക് തുല്യമാണ് അതിനാൽ ലാംഡയുടെ ഓരോ മൂല്യത്തിനും നമുക്ക് അനുബന്ധമായ ഒരു കോഫിഫിഷ്യന്റ് Ci ഉണ്ടായിരിക്കും കൂടാതെ ഈ കോഫിഫിഷ്യന്റ് അതിർത്തി വ്യവസ്ഥകളിൽ നിന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട് ഏറ്റവും സാധാരണമായ പരിഹാരം എല്ലാ വ്യക്തിഗത പരിഹാരങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സിഗ്മ തീറ്റ 0 ലേക്ക് പോകുന്നതിന്റെ അർത്ഥമെന്താണെന്ന് നമ്മൾ ഇതിനകം പരിശോധിച്ചു tau r തീറ്റ 0 ലേക്ക് പോകുന്നതിന്റെ അർത്ഥമെന്താണ് ഇപ്പോൾ നമുക്ക് തീറ്റയുടെ f ഫംഗ്ഷൻ ഉണ്ടെന്ന് സ്വീകരിക്കും അതിനാൽ നമ്മൾ f തീറ്റയെയും f പ്രൈം തീറ്റയെയും നോക്കും അപ്പോൾ നമുക്ക് അടിസ്ഥാന സമവാക്യങ്ങൾ ലഭിക്കും അതിൽ നിന്ന് നമ്മൾ സ്വഭാവ സമവാക്യം എഴുതുന്നു ഈജൻ മൂല്യങ്ങൾ കണ്ടെത്തുക അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് സമവാക്യങ്ങളുടെ പരിഹാരത്തിനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാർഗമാണ് നമ്മൾ പുതിയതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നടപടിക്രമം പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ കുറിപ്പുകളിൽ അത് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം ഗണിതശാസ്ത്രപരമായി കർശനമാണെന്ന് നമ്മൾ പിന്നീട് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നും അതിനാൽ നമ്മൾ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കും പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൽഫയ്ക്ക് തുല്യമായ തീറ്റയ്ക്ക് f തീറ്റ 0 ന് തുല്യമാണെന്ന് ഞാൻ പറയുന്നു ഈ പദപ്രയോഗങ്ങൾ നീളമുള്ളതാണ് എഴുതാൻ നിങ്ങളുടെ സമയം എടുക്കുക ഞാൻ അവ വായിക്കും C 1 കോസ് ലാംഡ മൈനസ് 1 ആൽഫ പ്ലസ് C2 സൈൻ ലാംഡ മൈനസ് 1 ആൽഫ പ്ലസ് C3 കോസ് ലാംഡ പ്ലസ് 1 ആൽഫ പ്ലസ് C4 സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ 0 ന് തുല്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലസ് ആൽഫയ്ക്ക് പകരം ഞാൻ അതിനെ മൈനസ് ആൽഫയായി മാറ്റും സൈൻ പദങ്ങൾ അടയാളം മാറ്റും കോസ് പദങ്ങൾ അങ്ങനെ തന്നെ തുടരും അതിനാൽ എനിക്ക് രണ്ടാമത്തെ പദപ്രയോഗം C1 കോസ് ലാംഡ മൈനസ് 1 ആൽഫ മൈനസ് C2 സൈൻ ലാംഡ മൈനസ് 1 ആൽഫ പ്ലസ് C3 കോസ് ലാംഡ പ്ലസ് 1 ആൽഫ മൈനസ് C4 സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ 0 എന്നതിന് തുല്യമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ പരിഹാരം ഗ്രൂപ്പുചെയ്യാനും ലാംഡയെ എങ്ങനെ കണക്കാക്കാമെന്ന് കണ്ടെത്താനും ഏറ്റവും സാധാരണമായ ആവിഷ്കാരരൂപം എഴുതാനും ശ്രമിക്കുകയാണ് ഇപ്പോഴും ഫൈയുടെ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും സാധാരണമായ രീതിയിൽ കോയിഫിഷൻറെ ഉപയോഗിച്ച് phi ഫംഗ്ഷൻ എഴുതുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കോയിഫിഷൻറെ നിങ്ങളുടെ പരീക്ഷണാത്മക മോഡലിൽ നിന്നോ നിങ്ങളുടെ സംഖ്യാ മോഡലിൽ നിന്നോ നിർണ്ണയിക്കേണ്ടതുണ്ട്

നമുക്ക് അടുത്തത് എക്സ്പ്രഷൻ f ഫംഗ്ഷന്റെ ആദ്യ ഡിഫറൻഷ്യൽ ആണ് തീറ്റ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൽഫയ്ക്ക് തുല്യമാകുമ്പോൾ അതു പൂജ്യത്തിന് തുല്യമാണ് ആ മുഖങ്ങളെ നമ്മൾ സ്വതന്ത്രമായി കണക്കാക്കി അതിനാൽ എനിക്ക് മൈനസ് C1 ലാംഡ മൈനസ് 1 സൈൻ ലാംഡ മൈനസ് 1 ആൽഫ പ്ലസ് C2 ലാംഡ മൈനസ് 1 കോസ് ലാംഡ മൈനസ് 1 ആൽഫ മൈനസ് C3 ലാംഡ പ്ലസ് 1 സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ പ്ലസ് C4 ലാംഡ പ്ലസ് 1 കോസ് ലാംഡ പ്ലസ് 1 ആൽഫ പൂജ്യത്തിന് തുല്യമാണ് അടുത്ത സമവാക്യം C1 ലാംഡ മൈനസ് 1 സൈൻ ലാംഡ മൈനസ് 1 ആൽഫ C2 ലാംഡ മൈനസ് 1 കോസ് ലാംഡ മൈനസ് 1 ആൽഫ പ്ലസ് C3 ലാംഡ പ്ലസ് 1 സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ പ്ലസ് C4 ലാംഡ കോസ് ലാംഡ പ്ലസ് 1 ആൽഫ 0 ന് തുല്യമാണ്

ഇപ്പോൾ നമ്മൾ ചില ആൾജിബ്ര കൃത്രിമങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് അവയെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം C1 C3 C2 C4 എന്നിവ ഉൾപ്പെടുന്ന സമവാക്യങ്ങളുടെ ഗണം നമ്മൾ ആൾജിബ്ര കൃത്രിമം നടത്തുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും അത് ചെയ്തുകഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ പദപ്രയോഗങ്ങൾ ലഭിക്കുന്നു ആൾജിബ്ര ലഘൂകരണത്തിന് ശേഷം എനിക്ക് എന്ത് ലഭിക്കും നമ്മൾ ഇത് ആൾജിബ്ര ലഘൂകരണമായി കണക്കാക്കുന്നു ആൾജിബ്ര ലളിതവത്കരണത്തിന് ശേഷം ഇത് ഇതിൽ നിന്ന് നേരിട്ട് വരില്ല ഈ രീതിയിൽ മാത്രമേ ഇത് എഴുതാൻ കഴിയൂ അതിനാൽ എനിക്ക് ഇത് മാട്രിക്സ് കോസ് ലാംഡ മൈനസ് 1 ആൽഫ കോസ് ലാംഡ പ്ലസ് 1 ആൽഫ ലാംഡ മൈനസ് 1 ഗുണം സൈൻ ലാംഡ മൈനസ് 1 ആൽഫ ലാംഡ പ്ലസ് 1 സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ C 1 C3 എന്ന് എഴുതാം വലതുഭാഗത്ത് 0 ആണ് നിങ്ങളുടെ സമവാക്യങ്ങൾ പരിഹരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് നോൺ ട്രിവിയൽ പരിഹാരത്തിനായി നമുക്ക് ഹോമോജീനിയസ് സമവാക്യം ഉള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം അത് ലാംഡയുടെ മൂല്യം എന്താണെന്ന് നിർണ്ണയിക്കുന്നു നമ്മൾ ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ ഇത് ഇതുപോലെയാകും ഇത് വളരെ ദൈർഘ്യമേറിയതാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ അവയെ ശരിയായി ഗ്രൂപ്പുചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലളിതമായ പദപ്രയോഗം എഴുതാൻ കഴിയും ഇവ രണ്ടിന്റെയും 2 മൈനസ് എഴുതുക അങ്ങനെയാണ് ഈ പദപ്രയോഗം എഴുതുന്നത് ഇത് ഈ രീതിയിൽ മാറ്റിയെഴുതാം ലാംഡ ഗുണം കോസ് ലാംഡ മൈനസ് 1 ആൽഫ സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ മൈനസ് കോസ് ലാംഡ പ്ലസ് 1 ആൽഫ സൈൻ ലാംഡ മൈനസ് 1 ആൽഫ അതിനാൽ എനിക്ക് കോസ് a സൈൻ b മൈനസ് കോസ് a സൈൻ b പോലെയുള്ള ഒന്ന് ഉണ്ട് അതിനാൽ എനിക്ക് ഇതുപോലൊന്ന് ഉള്ളപ്പോൾ കൂടുതൽ ലളിതമാക്കാൻ എനിക്ക് കഴിയും ലാംഡ സൈൻ 2 ആൽഫ പ്ലസ് സൈൻ 2 ലാംഡ ആൽഫ 0 ന് തുല്യമായി എനിക്കുണ്ട് നമ്മൾക്കത് കോസ് a സൈൻ b മൈനസ് കോസ് b സൈൻ a ആയി വായിക്കേണ്ടി വരും കാരണം ലാംഡ പ്ലസ് 1 എടുത്തിട്ടുണ്ട് ഞാൻ ഇത് b ആയി എടുക്കുന്നുവെന്ന് കരുതുക ഇത് കോസ് b സൈൻ a ആയി ഞാൻ പറയണം അതിനാൽ നമ്മൾ ആ നിയമം ട്രിഗണോമെട്രിയിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ലാംഡ സൈൻ 2 ആൽഫ പ്ലസ് സൈൻ 2 ലാംഡ ആൽഫ 0 എന്നതിന് തുല്യമാക്കാം

എനിക്ക് മറ്റൊരു കൂട്ടം പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും ഇത് എനിക്ക് C1 C3 എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം വ്യവസ്ഥകളാണ് കാരണം നാല് കോയിഫിഷൻഡ്നു ഞാൻ പരിഹാരം കാണേണ്ടതുണ്ട് കൂടാതെ C2 C4 എന്നീ കോയിഫിഷൻഡ് ഗ്രൂപ്പുചെയ്യുമ്പോൾ എനിക്ക് ഈ അടിസ്ഥാന സമവാക്യം സൈൻ ലാംഡ മൈനസ് 1 ആൽഫ സൈൻ ലാംഡ പ്ലസ് 1 ആൽഫ രൂപപ്പെടുത്താം നമുക്ക് ലാംഡ മൈനസ് 1 കോസ് ലാംഡ മൈനസ് 1 ആൽഫ ലാംഡ പ്ലസ് 1 കോസ് ലാംഡ പ്ലസ് 1 ആൽഫ C2 C4 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ പൂജ്യമാണ് നോൺ ട്രീവിയൽ പരിഹാരത്തിനായി ഡിറ്റർമിനന്റ് 0 ലേക്ക് പോകണം അത് ലളിതമാക്കാൻ സൌകര്യപ്രദമായ രീതിയിൽ എഴുതാം ലാംഡ ഉൾപ്പെടുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ ഗ്രൂപ്പുചെയ്ത് പുറത്തെടുക്കുക അതിൽ നിന്ന് ആ ഘടകങ്ങളെല്ലാം ഗ്രൂപ്പുചെയ്യുക ഇതിനെ ലളിതമാക്കി മൈനസ് ലാംഡ സൈൻ 2 ആൽഫ പ്ലസ് സൈൻ 2 ലാംഡ ആൽഫ 0 എന്നതിന് തുല്യമായി എഴുതാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പകരം വയ്ക്കും ആൽഫ പൈയിലേക്ക് പോകുമ്പോൾ ഈ സമവാക്യത്തിന് എന്ത് സംഭവിക്കും ആൽഫ പൈയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് പദപ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും ഇത് നമ്മൾ കണ്ട പദപ്രയോഗമാണ് ആദ്യ പ്രയോഗം ലാംഡ സൈൻ 2 ആൽഫയായിരുന്നു അതിനാൽ ഈ രണ്ട് പദപ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് അന്തിമ പദപ്രയോഗം സൈൻ 2 പൈ ലാംഡ 0 ന് തുല്യമായി ലഭിക്കും അതിനാൽ ഈ സമവാക്യം പരിഹരിക്കുന്നതിലൂടെ നമുക്ക് ഈജൻ മൂല്യങ്ങൾ നേടാൻ കഴിയും ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം അതിനാൽ ഈ സമവാക്യത്തിന്റെ റൂട്ടുകൾ എന്താണെന്ന് നോക്കാം റൂട്ടുകൾ ലാംഡ n ബൈ 2 ആണ് എല്ലാ n സംഖ്യകൾക്കും 0 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 2 ഇങ്ങനെ തുടരും ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ റൂട്ടുകൾ സ്വീകാര്യമാണെന്ന് കണ്ടെത്തേണ്ടി വരും നമ്മൾ പരിഹാരത്തിൽ ഗണിതശാസ്ത്രപരമായി കർശനമായ നടപടിക്രമമാണ് ചെയ്യുന്നത് അതിനാൽ അതിന്റെ അവസാനം നമുക്ക് ലഭിക്കുന്ന പരിഹാരം എന്തായാലും അലംഘനീയമായിരിക്കും ഗണിതശാസ്ത്രം കർശനമായിരുന്നെന്ന് നമുക്ക് ആശ്വസിക്കാം ലാംഡയെ n ബൈ 2 ന് തുല്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പരിഹാരത്തിലേക്ക് പെട്ടെന്ന് എത്തുകയില്ല എനിക്ക് n 0 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 2 റൂട്ടുകളാണുള്ളത് 0 ന് തുല്യമായ n നും റൂട്ടുകളുടെ നെഗറ്റീവ് മൂല്യങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അവയിലേതെങ്കിലും അസ്വീകാര്യമായ ഫലങ്ങൾ നൽകുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അവ അസ്വീകാര്യമായ ഫലങ്ങൾ നൽകുന്നുവെങ്കിൽ നമ്മൾ അവ ഉപേക്ഷിക്കണം അനുവദനീയമായ റൂട്ടുകളെക്കുറിച്ചുള്ള ചർച്ച n പൂജ്യത്തിൽ കുറവാണെങ്കിൽ കണക്കാക്കിയ ഡിസ്പ്ലേസ്മെൻറ് u r എന്നതിന് ഫോമിൽ ആയിരിക്കും നമ്മൾ പോളാർ കോർഡിനേറ്റുകളിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കുക അതിനാൽ നമുക്ക് u r ഉം u തീറ്റയും ലഭിക്കും u r എന്നത് 1 ബൈ r പവർ മോഡുലസ് n ബൈ 2 ഗുണം f 1 തീറ്റ ആണ് R 0 ലേക്ക് പോകുമ്പോൾ എന്തുസംഭവിക്കുന്നു ഡിസ്പ്ലേസ്മെൻറ് അതിരുകളില്ല വാസ്തവത്തിൽ നമ്മൾ വെസ്റ്റർഗാർഡ് പരിഹാരം ചർച്ചചെയ്യുമ്പോൾ സ്ട്രെസ് ഫീൽഡിന് ശേഷം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡ് കണ്ടു ഡിസ്പ്ലേസ്മെൻറ് പരിമിതപ്പെടുത്തിയിരിക്കെ ക്രാക്ക് ടിപ്പിൽ സ്ട്രെസ് സിംഗുലാർ ആണ് എന്നത് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു ഡിസ്പ്ലേസ്മെൻറ്നു ന്യൂമറേറ്ററിൽ r ന്റെ റൂട്ട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതിനാൽ r 0 ലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ് 0 ലേക്ക് പോകുന്നു അതേസമയം നമ്മൾ നെഗറ്റീവ് റൂട്ടുകൾ സമ്മതിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ് u r പരിധിയില്ലാത്തതാണെന്ന് നമ്മൾ കണ്ടെത്തും അതിനാൽ ഇത് ഉപേക്ഷിക്കേണ്ടതുണ്ട് 0 ന് തുല്യമായ n നാണ് നമ്മൾ കേസ് എടുക്കുന്നതെന്ന് കരുതുക എന്ത് സംഭവിക്കും സ്ട്രെസ് സ്ട്രെയിൻ സിഗ്മ ij രൂപത്തിൽ 1 ബൈ r f തീറ്റയാണ് ഇത് f 2 തീറ്റയാണ് തീറ്റയുടെ മറ്റ് ചില ഫംഗ്ഷൻങ്ങൾ എപ്സിലോൺ ij എന്നത് 1 ബൈ r f 3 തീറ്റയ്ക്ക് തുല്യമാണ് സിഗ്മയും സ്ട്രെയിൻ ഉം അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി കണ്ടെത്താൻ കഴിയും ഞാൻ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നോക്കിയാൽ അത് dU എന്ന രൂപത്തിലാണ് അത് 1 ബൈ r സ്ക്വയർ f2 തീറ്റ f3 തീറ്റ ആയിരിക്കും അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഒരു അടച്ച കോൺണ്ടർ എടുക്കുന്നുവെന്ന് കരുതുക ക്രാക്ക് ടിപ്പിന് ചുറ്റുമുള്ള ഒരു അടഞ്ഞ പ്രദേശത്ത് ഞാൻ ഇത് സമന്വയിപ്പിക്കുകയാണെങ്കിൽ ഇത് അനന്തമായ ഊർജ്ജം ഒരു പരിമിത അളവിൽ സംഭരിക്കാനാകുമെന്ന നിരീക്ഷണത്തിന് കാരണമാകുന്നു അത് സാധ്യമല്ല അത് സാധ്യമല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം N എന്നത് 0 ന് തുല്യമാണെന്ന് പറയേണ്ടതാണ് അതാണ് നിഗമനം ഒടുവിൽ നമുക്ക് എന്ത് ലഭിക്കും റൂട്ടുകൾ പോസിറ്റീവ് സംഖ്യകൾ മാത്രമാണ് അതിനാൽ നമ്മൾ അടിസ്ഥാന ഈജൻ സമവാക്യം പരിശോധിച്ചു അതിൽ നിന്ന് നമ്മൾ ഈജൻ മൂല്യങ്ങൾ കണ്ടെത്തണം നമുക്ക് ലഭിച്ച ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം ഇതിൽ നിന്ന് നമുക്ക് ഈജൻ മൂല്യങ്ങൾ ലഭിക്കണം ഈ വാദങ്ങളെ അടിസ്ഥാനമാക്കി റൂട്ടുകൾക്ക് പോസിറ്റീവ് സംഖ്യകളാകാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ എനിക്ക് അതിർത്തി വ്യവസ്ഥകളുണ്ട് pi lambda n pi ന് തുല്യവും lambda n ബൈ 2 ന് തുല്യവുമാണ് ഇവിടെ n 1 2 3 ന് തുല്യമാണ് നമുക്ക് നെഗറ്റീവ് റൂട്ടുകൾ ഇല്ല നമുക്ക് 0 ഉം ഉണ്ടാകരുത് നമ്മൾ കണ്ടെത്തുന്നതും കോയിഫിഷ്ൻറെ പൂർണ്ണമായും സ്വതന്ത്രമല്ല ഒരു പരസ്പര ബന്ധമുണ്ട് n ഒറ്റസംഖ്യ ആകുമ്പോൾ n 1 3 അങ്ങനെ തുല്യമാകുമ്പോൾ നമുക്ക് C 3n എന്നത് മൈനസ് n മൈനസ് 2 ബൈ n പ്ലസ് 2 C 1n ആണ് C 4n മൈനസ് C 2n ന് തുല്യമാണ് n ഇരട്ടസംഖ്യ ആകുമ്പോൾ അത് n 2 4 6 ന് തുല്യമാണ് എനിക്ക് C 3n മൈനസ് C 1n നും C 4n ന് തുല്യമാണ് അത് മൈനസ് n മൈനസ് 2 ബൈ n പ്ലസ് 2 ഗുണം C 2n ആണ് ഇപ്പോൾ നമ്മൾ എടുത്ത പ്രശ്നത്തിന് ഏറ്റവും സാധാരണമായ രൂപത്തിൽ എറിസ് സ്ട്രെസ് ഫംഗ്ഷൻ നിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ നോക്കി വെസ്റ്റർഗാർഡ് പരിഷ്കരിച്ച വെസ്റ്റർഗാർഡ് എന്നിവ നോക്കി ഇർവിൻ വെസ്റ്റർഗാർഡിനെ സാമാന്യവൽക്കരിച്ചു നിരീക്ഷണത്തിനുള്ള ഒരു മാർഗ്ഗം സാമാന്യവൽക്കരിച്ച ഫോർമുലേഷനിലേക്ക് പോകുക എന്നതാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പരീക്ഷണത്തിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് നമുക്ക് ഒരു വലിയ സോൺ ലഭിക്കും വെസ്റ്റർഗാർഡിന്റെ കാര്യത്തിൽ വിവരശേഖരണത്തിന്റെ മേഖല വളരെ ചെറുതാണ് ഇർവിന്റെ കാര്യത്തിൽ സോൺ അല്പം വലുതായിത്തീരുന്നു ഉയർന്ന ഓർഡർ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി വലുതായിത്തീരുന്നു നമ്മൾ വെസ്റ്റർഗാർഡ് സമവാക്യം സാമാന്യവൽക്കരിച്ചുകഴിഞ്ഞാൽ മറ്റ് രണ്ട് കേസുകളിലേക്കും ഇത് ലളിതമാക്കാം അതിനാലാണ് ഇതിനെ പൊതുവൽക്കരിച്ച വെസ്റ്റർഗാർഡ് സമവാക്യം എന്ന് വിളിക്കുന്നത് എന്നാൽ നമുക്ക് ലഭിച്ച സ്ട്രെസ് എന്തുതന്നെയായാലും വളരെ ശോചനീയമായിരുന്നുഅത് പക്ഷേ നമ്മൾ പിന്നീട് കാണും അടുത്ത ക്ലാസ്സിൽ സാമാന്യവൽക്കരിച്ച വെസ്റ്റർഗാർഡും വില്യമിന്റെ ഈജൻ ഫംഗ്ഷനും തമ്മിലുള്ള ചില ബന്ധങ്ങൾ നമ്മൾ കണ്ടെത്തും നമ്മൾ അവയെ തമ്മിൽ ചേർത്ത് നല്ല രീതിയിൽ അവതരിപ്പിക്കും